കറൻറ് ഡെൻസിറ്റികളിൽ നിന്നുള്ള വെക്ടർ പൊട്ടൻഷ്യൽ 11 മുമ്പത്തെ പ്രഭാഷണത്തിൽ വൈദ്യുതധാര പ്രവഹിക്കുന്ന ഗോളാകൃതിയിലുള്ള ഷെല്ലിൻറെ ഉപരിതലത്തിലെ വെക്ടർ പൊട്ടൻഷ്യൽ നമ്മൾ കണക്കാക്കി അവിടെ വൈദ്യുതസാന്ദ്രത K എന്നതിനെ സൈൻ തീറ്റ ഫൈ യൂണിറ്റ് വെക്റ്റർ എന്നാണ് നൽകുന്നത് അതിനെ ഞാൻ മൈനസ് x ദിശയിൽ K സൈൻ തീറ്റ സൈൻ ഫൈ X ദിശയുടെയും K സൈൻ തീറ്റ കൊസൈൻ ഫൈ y ദിശയുടെയും തുകയായി എഴുതാം KKsinθKsinθsinϕ xKsinθcosϕ അങ്ങനെ r മൈനസ് R ൽ ഉള്ള ഇന്റഗ്രൽ സൈൻ തീറ്റ സൈൻ ഫൈ എന്ന ഒരു ഇന്റഗ്രൽ നമ്മൾ കണ്ടു നമ്മൾ വീണ്ടും R നെ തീറ്റ പ്രൈം ഫൈ പ്രൈം എന്നിവയുടെ ഒരു ഫംഗ്ഷൻ ആയി എഴുതുന്നു കൂടാതെ ഇവിടെ d s പ്രൈം ആയിരിക്കണം ഇതിൽ r ൻറെ മൂല്യം R നേക്കാൾ കൂടുതലാണെങ്കിൽ 4π3 R ൻറെ ത്രിവർഗ്ഗം ഹരണം r ൻറെ വർഗ്ഗം ഗുണം സൈൻ തിറ്റ സൈൻ ഫൈ എന്നതിന് തുല്യമാണെന്നും r ൻറെ മൂല്യം R നേക്കാൾ കുറവോ തുല്യമോ ആണെങ്കിൽ 4π3 ഗുണം r സൈൻ തിറ്റ സൈൻ ഫൈ എന്നതിനു തുല്യമായിരിക്കും എന്ന് ഞാൻ അവകാശപ്പെടുന്നു തുടർന്ന് കൊസൈൻ പദത്തിന് സമാനമായ മൂല്യം ലഭിക്കുന്നതായിരിക്കും അവിടെയുള്ള ഇലക്ട്രോസ്റ്റാറ്റിക്സ് പൊട്ടൻഷ്യൽ എന്നിവയെക്കുറിച്ചുള്ള അറിവ് ഉപയോഗിച്ച് ഈ ഇന്റഗ്രൽ എങ്ങനെ വിലയിരുത്താം എന്ന് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു sinsinϕ|r R|ds 4π3R3r2sinθsinϕ r≥R 4π3rsinθsinϕ r≤R ഇതിനായി ഞാൻ ഒരു ഉപരിതലത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിനാൽ നമ്മൾ ഒരു ചാർജ് വിതരണത്തിനോ ഉപരിതല ചാർജ് വിതരണത്തിനോ വേണ്ടി അന്വേഷിക്കുന്നു തീറ്റ ഫൈtheta phi എന്നിവയെ ആശ്രയിക്കുന്ന ഒരു ഉപരിതല ചാർജ് വിതരണത്തിനായി ഞാൻ അന്വേഷിക്കുന്നു അത് കണ്ടെത്താൻ വളരെ എളുപ്പമാണ് നമുക്ക് X ദിശയിൽ സ്ഥിരമായ ധ്രുവീകരണം P ഉള്ള ഒരു ഗോളം എടുക്കാം എനിക്ക് അത് y ദിശയിൽ എടുത്താൽ മറ്റ് ചില ആശ്രിതത്വം ലഭിക്കും അതിനാൽ ഞാൻ x ദിശയിൽ നിന്ന് ആശ്രിതത്വം ഉള്ളതിൽനിന്ന് ആരംഭിക്കും അപ്പോൾ പുറത്തുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഒരു ദ്വിധ്രുവത്തിന് തുല്യമാണെന്ന് എനിക്കറിയാം അതായത് ഒരു പോയിന്റ് ദ്വിധ്രുവo അതിൻറെ മാഗ്നിറ്റ്യൂഡ് P അഥവാ പോയിന്റ് P വെക്ടർ എന്നത് x ദിശയിൽ ഈ ഗോളത്തിന്റെ മധ്യഭാഗത്തുള്ള 4π3 ഗുണം R ൻറെ ത്രിവർഗ്ഗം ഗുണം P എന്ന മൂല്യത്തിനു തുല്യമാണ് അതിനാൽ അതാണ് നമ്പർ 1 വസ്തുത ഫാക്ട് നമ്പർ 2 ആണ് ρb ഇത് P യുടെ മൈനസ് ഡൈവേർജൻസ് അതായത് 0 ആണ് σb എന്നത് P dot n ആകും ഈ സാഹചര്യത്തിൽ അത് P dot r യൂണിറ്റ് വെക്റ്റർ ആണ് അതിനാൽ ഞാൻ P എടുക്കുന്നത് P x dot r ആണ് അതായത് P x dot r തരുന്നത് സൈൻ തീറ്റ കൊസൈൻ ഫൈ അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ ഈ അവസ്ഥയിൽ പുറത്തുള്ള പൊട്ടൻഷ്യൽ ρbകാരണമാണ് അതിന് സൈൻ തീറ്റ കൊസൈൻ ഫൈയുമായി ആശ്രയത്വമുണ്ട് ഉള്ളിലെ പൊട്ടൻഷ്യൽ ഒരു സമാന ഫീൽഡുമായി ബന്ധപ്പെട്ടതാണ് കൂടാതെ നമുക്ക് ഷെല്ലിനുള്ളിലോ ഗോളത്തിനകത്തോ ഉള്ള പൊട്ടൻഷ്യൽ ഒരു സമാന ഫീൽഡിനുള്ളതാണ് എന്നും എഴുതാം

P0 bP nP rPx rPsinθcosϕ അതിനാൽ എനിക്ക് V of r എന്നത് എഴുതാൻ കഴിയും അതായത് 1 4 പൈ എപ്സിലോൺ 0 ഇന്റഗ്രേഷൻ ρb എന്നത് r പ്രൈമിൻറെ ഫംഗ്ഷൻ ഉപരിതലത്തിൽ അല്ലാത്ത ഹരണം r വെക്റ്റർ അത് r വെക്റ്റർ മൈനസ് R വെക്റ്റർ ഉപരിതലത്തിൽ ആയ തീറ്റ പ്രൈമിന്റെയും ഫൈ പ്രൈമിന്റെയും ഫംഗ്ഷൻ ഗുണം dS പ്രൈം ആയിരിക്കണം ഇവിടെ dS പ്രൈം എന്നത് ഒരു വെക്റ്റർ R വഴി ഈ പ്രതലത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ അവിടെ R ഞാൻ കണക്കുകൂട്ടുന്ന ഒരു വെക്റ്ററാണ് അതിനാൽ R എവിടെയാണെങ്കിലും r അത് തീറ്റയെയും ഫൈയെയും ആശ്രയിച്ചിരിക്കുന്നു R യൂണിറ്റ് വെക്റ്റർ അല്ലെങ്കിൽ R എന്നത് തീറ്റപ്രൈമും ഫൈപ്രൈമും ആണ് പക്ഷേ ഇത് 14 പൈ എപ്സിലോൺ 0 ഇന്റഗ്രൽ P സൈൻ തീറ്റ പ്രൈം കൊസൈൻ ഫൈ പ്രൈം ഹരണം മോഡുലസ് r മൈനസ് R തീറ്റ പ്രൈം ഫൈ പ്രൈം d s പ്രൈം എന്നതിനു തുല്യമാണ് ഇതാണ് പൊട്ടൻഷ്യൽ പക്ഷേ ഇത് 14 പൈ എപ്സിലോൺ 0 x ദിശയിലുള്ള P ഡോട്ട് r യൂണിറ്റ് വെക്റ്റർ ഹരണം r സ്ക്വയറിനു തുല്യം ആണെന്ന് എനിക്കറിയാം അതിനാൽ ഇത് 14 പൈ എപ്സിലോൺ 0 4 പൈ ഹരണം 3 R ക്യൂബ്ഡ് P ഗുണനം സൈൻ തീറ്റ കൊസൈൻ ഫൈ ഹരണം r സ്ക്വയർ ആയി മാറുന്നു അങ്ങനെ പൊട്ടൻഷ്യലും

rr214π04π3R3Psinθcosϕr2 നമുക്ക് ഇപ്പോൾ ചില പദങ്ങൾ ഒഴിവാക്കാം ഇരുവശത്തുനിന്നും P ഒഴിവാകുന്നത് കാണാം 14 പൈ എപ്സിലോൺ 0 ഇരുവശത്തുനിന്നും ഒഴിവാക്കുന്നു പിന്നെ എനിക്ക് അവശേഷിക്കുന്നത് ഇന്റഗ്രൽ സൈൻ തീറ്റ പ്രൈം കൊസൈൻ ഫൈ പ്രൈം ഹരണം r മൈനസ് R തീറ്റ പ്രൈം ഫൈ പ്രൈം d s പ്രൈം ആണ് അത് 4 പൈ ഹരണം 3 R ക്യൂബ്ഡ് ഹരണം r സ്ക്വയർ സൈൻ തീറ്റ കൊസൈൻ ഫൈ എന്നതിനു തുല്യമാണ് അകത്ത് എന്താണ് ഇത് പുറത്തുള്ള ds പോയിൻറ്ന് R ൻറെ മൂല്യത്തെക്കാൾ കൂടുതലോ തുല്യമോ ആയ r ൻറെ മൂല്യത്തെ കർശനമായി സാധൂകരിക്കുന്നതാണ് കാരണം ഇതിന് സാധൂകരിക്കുന്ന രീതിയിലുള്ള പൊട്ടൻഷ്യൽ പദപ്രയോഗമാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്

sinsinϕ|r R|ds4π3R3r2sinθcosϕ അതിനാൽ ഇപ്പോൾ നമുക്ക് അകത്തേക്ക് നോക്കാം അകത്ത് എനിക്ക് സമാന ഫീൽഡ് ഉണ്ട് ധ്രുവീകരണം P ഈ ദിശയിലാണ് എങ്കിൽ ഈ ഫീൽഡിന്റെ മൂല്യം എന്താണ് ഈ ഫീൽഡിന്റെ മൂല്യം E എന്നത് നെഗറ്റീവ് x ദിശയിൽ ഉള്ള മൈനസ് P ഹരണം 3 എപ്സിലോൺ 0 അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ പൊട്ടൻഷ്യൽ V r എന്നത് പ്ലസ് P ഹരണം 3 എപ്സിലോൺ 0 x അല്ലാതെ മറ്റൊന്നുമല്ല ഈ ഡെറിവേറ്റീവ് x ന് അനുസൃതമായി എടുക്കുക E P30x VrP30x അതിനർത്ഥം ഞാൻ അതിൻറെ ഗ്രേഡിയന്റ് എടുക്കുകയാണെങ്കിൽ അത് എനിക്ക് നെഗറ്റീവ് ദിശയിലേക്ക് പോകുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് നൽകും അതിനെ എനിക്ക് P ഹരണം 3 എപ്സിലോൺ 0 r സൈൻ തീറ്റ കൊസൈൻ ഫൈ കൂടെ ഒരു സ്ഥിരാങ്കവുമായി എഴുതാവുന്നതാണ് പക്ഷേ സൈൻ തീറ്റ കൊസൈൻ ഫൈ എന്നിവയുടെ ആശ്രയത്വം ഇതിനു സമാനമായ ഫീൽഡ് കണക്കുകൂട്ടുന്നതിൽ ശരിക്കും പ്രാധാന്യമർഹിക്കുന്നു ഇത് വീണ്ടും 1 4 പൈ എപ്സിലോൺ 0 ഇന്റഗ്രൽ ρb ഇത് P സൈൻ തീറ്റ പ്രൈം കൊസൈൻ ഫൈ പ്രൈം ഹരണം r മൈനസ് R ന് തുല്യമായിരിക്കണം ഇത് തീറ്റ പ്രൈം ഫൈ പ്രൈം dS പ്രൈം എന്നിവയുടെ ഫംഗ്ഷൻ ആണ് VrP30xCP30rsinθcosϕC14π0Psincosϕ|r R|ds വീണ്ടും നമുക്ക് പദങ്ങൾ ഒഴിവാക്കാം ഈ P ഇരുവശത്തുനിന്നും ഒഴിവാക്കാം ഈ എപ്സിലോൺ 0 രണ്ടു വശങ്ങളിൽ നിന്നും ഒഴിവാക്കുന്നു പിന്നെ ശേഷിക്കുന്നത് എന്താണെന്നാൽ ഇന്റഗ്രൽ സൈൻ തീറ്റ പ്രൈം കൊസൈൻ ഫൈ പ്രൈം ഹരണം R മൈനസ് r തീറ്റ പ്രൈം ഫൈ പ്രൈം dS പ്രൈം എന്നത് 4 പൈ ഹരണം 3 r സൈൻ തീറ്റ കൊസൈൻ ഫൈ പ്ലസ് C ഇവിടെ C ഉപരിതലത്തിൽ ഉള്ള ഒരു ഡിസ്കണ്ടിന്യൂവിറ്റിയെ നിർണ്ണയിക്കും നിങ്ങൾക്ക് V തുടർച്ചയാക്കണമെങ്കിൽ C അതുകൊണ്ട്തന്നെ നിർണ്ണയിക്കുന്നതാണ് പക്ഷേ തീറ്റയെയും ഫൈയെയും ആശ്രയിക്കുന്നത് r C സൈൻ തീറ്റ കൊസൈൻ പ്രൈം ആകുന്നു sinsinϕ|r R|ds4π3rsinθcosϕC മറ്റ് ഇൻററഗ്രലുകളുടെ കാര്യമോ ഇപ്പോൾ എനിക്ക് ഇന്റഗ്രൽ സൈൻ തീറ്റ പ്രൈം സൈൻ ഫൈയെ തീറ്റ പ്രൈമിന്റെയും ഫൈ പ്രൈം dS പ്രൈമിന്റെയും ഫംഗ്ഷൻ ആയി r മൈനസ് R ൽ വിലയിരുത്തണമെങ്കിൽ എന്തു ചെയ്യും ഇത് y ദിശയിലുള്ള ധ്രുവീകരണം P ഉള്ള ഒരു ഗോളമാണെന്ന് ഞാൻ എടുക്കും അതിനാൽ P യുടെ കേൾ വീണ്ടും 0 ആണ് അതിനാൽ ρb 0 ആണ് പക്ഷേ ഉപരിതലത്തിൽ നിന്ന് പുറത്തുവരുന്ന σb എന്നത് P ഡോട്ട് n ആകുംഇത് P ഡോട്ട് r ആണ് ഇത് P y ഡോട്ട് r ആണ് അത് P സൈൻ തീറ്റ പ്രൈം സൈൻ ഫൈ ആകുo ഇതിനനുസരിച്ചുള്ള ഇന്റഗ്രലുകൾ ഞാൻ കണക്കുകൂട്ടുകയും അവയെ P ഡോട്ട് rr സ്ക്വയറിന് തുല്യമാക്കുകയും ചെയ്താൽ ഇതിനായി ഇന്റഗ്രലുകൾക്കുള്ള ഉത്തരങ്ങൾ എനിക്ക് ലഭിക്കും അതിനാൽ എല്ലായ്പ്പോഴും ഇലക്ട്രോസ്റ്റാറ്റിക് അവസ്ഥയിൽ ഉള്ള ഒരു പ്രത്യേക പദപ്രയോഗവുമായി ഇത്തരം ഇന്റഗ്രലിനെ യോജിപ്പിക്കാൻ കഴിയും അതിനാൽ എൻറെ ഉത്തരം എന്തായിരിക്കും എന്ന് നേരിട്ട് കെ എനിക്ക് എഴുതാൻ കഴിയും ഇതിൽ കൂടുതൽ ഇൻററഗ്രലുകൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ അസൈൻമെൻറ് ആയി തരുന്നതായിരിക്കും